Ti ട്രാൻസാക്ഷന്റെ ഒരു ഇൻസ്ട്രക്ഷൻ Ii മറ്റൊരു ട്രാൻസാക്ഷൻ Tj യുടെ ഇൻസ്ട്രക്ഷനുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ അതിനെ കോൺഫ്ലിക്റ്റ് എന്നു പറയുന്നു അതായത് രണ്ടുപേരും ഒരേ ഡാറ്റ ഇനം ആക്സസ് ചെയ്യുന്നു ഇത് വളരെ പ്രധാനമാണ് അവർ ഒരേ ഡാറ്റ ഇനം ആക്സസ് ചെയ്യുകയും അവയിലൊന്നെങ്കിലും ഒരു എഴുത്ത് പ്രവർത്തനമാണെങ്കിൽ അതുകൊണ്ടാണ് അവ കോൺഫ്ലിക്റ്റിംഗ് പറയുന്നത് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ RAW ഉണ്ട് എഴുതിയതിനുശേഷം വായിക്കുക തുടർന്ന് WAW എഴുതിയതിന് ശേഷം എഴുതുക WAR വായിച്ചതിനുശേഷം എഴുതുക എന്താണ് പ്രശ്നം എന്തുകൊണ്ടാണ് അവ കോൺഫ്ലിക്റ്റിംഗ് ആകുന്നത് ഈ ഇൻസ്ട്രക്ഷൻ Ii ഉം ഇൻസ്ട്രക്ഷൻ Ij ഉം രണ്ട് വ്യത്യസ്ത ട്രാൻസാക്ഷനുകളാണ് അവർ വ്യത്യസ്ത ട്രാൻസാക്ഷനുകളിലായിരിക്കണം അവർ ഒരേ ഡാറ്റ ഇനം ആക്സസ് ചെയ്യണം അവയിലൊന്ന് എഴുത്ത് പ്രവർത്തനം ആയിരിക്കണം കോൺഫ്ലിക്റ്റ് വളരെ ലളിതമായി താഴെ പറയുന്ന കാര്യമാണ് Ij ന് മുമ്പ് Ii നടന്നിരിക്കണം എന്ന് കരുതുക അവ കോൺഫ്ലിക്റ്റിംഗ് ആണ് കാരണം അതിന് തുല്യമായ മറ്റൊരു ഷെഡ്യൂളിൽ Ii Ij എന്നിവയുടെ ഈ ക്രമം സംരക്ഷിക്കപ്പെടണം മറ്റൊരു ഷെഡ്യൂളിൽ അത് സംഭവിക്കാൻ കഴിയില്ല Ij Ii യ്ക്ക് മുമ്പാണ് അത് തുല്യമല്ല എന്തുകൊണ്ട് ഇത് തുല്യമല്ല കാരണം റീഡ് റൈറ്റ് റൈറ്റ് റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് റീഡ് കോൺഫ്ലിക്റ്റ് സംഭവിക്കുമെന്ന് നിങ്ങൾ കാണുന്നു അതുകൊണ്ടാണ് അവ കോൺഫ്ലിക്റ്റിംഗ് എന്ന് പറയപ്പെടുന്നത് ഇത് കോൺഫ്ലിക്റ്റിന്റെ നിർവചനമാണ് ഈ കോൺഫ്ലിക്റ്റ് ഈ ഇൻസ്ട്രക്ഷനിൽ ഒരു ലോജിക്കൽ ടെമ്പറൽ ഓർഡർ നടപ്പിലാക്കുന്നു ലോജിക്കൽ ടെമ്പറൽ ഓർഡർ ലംഘിക്കാൻ കഴിയില്ല അത് ഒരു കാര്യമാണ് മറുവശത്ത് കോൺഫ്ലിക്റ്റില്ലാത്ത രണ്ട് ഇൻസ്ട്രക്ഷനുകളുണ്ടെന്ന് പരിഗണിക്കുക തുടർന്ന് അവ പരസ്പരം മാറ്റാനും മറ്റെവിടെയെങ്കിലും മുമ്പ് എവിടെയും സ്ഥാപിക്കാനും കഴിയും അത് ഒരു പ്രശ്നമല്ല അതാണ് അതിന്റെ മറുവശം അതാണ് നമ്മൾ കൂടുതൽ വിശദമായി പഠിക്കാൻ പോകുന്നത് ഇതാണ് കോൺഫ്ലിക്റ്റ് നമ്മൾ സീരിയലൈസബിലിറ്റി പഠിച്ചു അടുത്തതായി നമ്മൾ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി പഠിക്കും ഇൻസ്ട്രക്ഷനുകളുടെ നോൺ കോൺഫ്ലിക്റ്റ് സ്വാപ്പ് പരമ്പരയിലൂടെ S ആയി മാറ്റാൻ കഴിയുമെങ്കിൽ ഒരു ഷെഡ്യൂളിനെ മറ്റൊരു S' ഷെഡ്യൂളിന് തുല്യമായ കോൺഫ്ലിക്റ്റ് എന്ന് വിളിക്കുന്നു ഇൻസ്ട്രക്ഷനുകളുടെ നോൺ കോൺഫ്ലിക്റ്റ് സ്വാപ്പ് എന്താണ് അർത്ഥമാക്കുന്നത് ഒരു ഷെഡ്യൂൾ എസ് ഉണ്ടെന്നും അതിൽ ചില ഇൻസ്ട്രക്ഷനുകളുണ്ടെന്നും കരുതുക എസ്സിനുള്ളിൽ നമുക്ക് രണ്ട് ഇൻസ്ട്രക്ഷനുകൾ തിരഞ്ഞെടുക്കാം നമുക്ക് ഇത് മാറ്റാം നമുക്ക് ഇത് തുടരാം ഈ പ്രക്രിയയിലൂടെ നമുക്ക് S ൽ നിന്ന് S ലേക്ക് പോകാം S S' എന്നിവ കോൺഫ്ലിക്റ്റിന് തുല്യമാണ് കാരണം രണ്ട് ഇൻസ്ട്രക്ഷനുകൾ പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ അവ പരസ്പരം മാറ്റിയെന്ന് അവർ ഉറപ്പുവരുത്തി മറുവശത്ത് രണ്ട് നിർദ്ദേശങ്ങൾ പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ അവയുടെ ലോജിക്കൽ ഓർഡർ നിലനിർത്തുന്നു കോൺഫ്ലിക്റ്റിംഗ് ഇൻസ്ട്രക്ഷനുകളുടെ അർത്ഥത്തിൽ ഈ രണ്ട് ഷെഡ്യൂളുകളും തുല്യമാണ് കോൺഫ്ലിക്റ്റിംഗ് ഇൻസ്ട്രക്ഷനുകൾ അതേ ക്രമം നിലനിർത്തുന്നു അതുകൊണ്ടാണ് അവയെ കോൺഫ്ലിക്റ്റ് ഇക്വിവലൻററ് എന്ന് വിളിക്കുന്നത് അതാണ് കോൺഫ്ലിക്റ്റ് ഇക്വിവലൻററിന്റെ നിർവചനം ഇതാണ് ആദ്യത്തെ നിർവചനം S കോൺഫ്ലിക്റ്റ് സീരിയലൈസ് ചെയ്യാവുന്നതാണെന്ന് പറയപ്പെടുന്നു ഇത് കോൺഫ്ലിക്റ്റ് ഇക്വിവലൻററും കോൺഫ്ലിക്റ്റ് സീരിയലൈസ് ചെയ്യാവുന്നതുമാണ് ഇതാണ് വീണ്ടും നിർവ്വചനം S എന്നത് ചില സീരിയൽ ഷെഡ്യൂളിന് തുല്യമായ വൈരുദ്ധ്യമാണെങ്കിൽ S കോൺഫ്ലിക്റ്റ് സീരിയലൈസ് ചെയ്യാവുന്നതാണ് ഇത് ചില സീരിയൽ ഷെഡ്യൂളിന് നൽകിയിരിക്കുന്നു അത് എല്ലാ സീരിയൽ ഷെഡ്യൂളിനും തുല്യമായ വൈരുദ്ധ്യമായിരിക്കണമെന്നില്ല പക്ഷേ S കോൺഫ്ലിക്റ്റിന് തുല്യമായ ഒരു സീരിയൽ ഷെഡ്യൂൾ എങ്കിലും ഉണ്ടായിരിക്കണം അപ്പോൾ അതിനെ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ എന്ന് വിളിക്കുന്നു അതാണ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റിയുടെ നിർവചനം എന്തുകൊണ്ടാണ് നമ്മൾ അത് പഠിക്കുന്നത് കാരണം ഒരു ഷെഡ്യൂൾ എസ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണെങ്കിൽ അതിന്റെ അർത്ഥം അത് ചില സീരിയൽ ഷെഡ്യൂളിന് തുല്യമാണ് ട്രാൻസാക്ഷനുകൾ ഒന്നിനുപുറകെ ഒന്നായി നടക്കുന്നുണ്ടെങ്കിൽ അവ ഡാറ്റാബേസ് കൺസിസ്റ്റൻസി സംരക്ഷിക്കുന്നു ഓരോ ട്രാൻസാക്ഷനുകൾ ഡാറ്റാബേസ് കൺസിസ്റ്റൻസി സംരക്ഷിക്കുന്നു T1 ട്രാൻസാക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ അത് ഡാറ്റാബേസ് കൺസിസ്റ്റൻസി സംരക്ഷിക്കുകയും T2 സംഭവിക്കുമ്പോൾ അത് ഡാറ്റാബേസ് കൺസിസ്റ്റൻസി സംരക്ഷിക്കുകയും ചെയ്യും മറ്റൊരു ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ അത് T1 T2 എന്നിവ ഇന്റർലീവ് ആണെങ്കിലും അതിന് കോൺഫ്ലിക്റ്റ് ഇക്വിവലൻററുമാണെങ്കിൽ അത് ഡാറ്റാബേസ് കൺസിസ്റ്റൻസിയും സംരക്ഷിക്കുന്നു S ഇനിപ്പറയുന്നതാണെന്ന് കരുതുക നമ്മൾ അതേ നൊട്ടേഷൻ ഉപയോഗിക്കുകയും അർദ്ധവിരാമങ്ങൾ പോലും ഉപേക്ഷിക്കുകയും ചെയ്യും ഒന്നാമത്തെ ചോദ്യം ഈ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിളാണോ അതാണ് നമ്മൾ ഉത്തരം നൽകാൻ ശ്രമിക്കുന്നത് ഇത് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിളാണോ അല്ലയോ എന്ന് പറയാൻ ഇത് ഒന്നിനോട് തുല്യമായിരിക്കണം T1 T2 എന്നീ രണ്ട് ട്രാൻസാക്ഷനുകൾ മാത്രമേയുള്ളൂ അതിനാൽ ഇത് T1 T2 അല്ലെങ്കിൽ T2 T1 എന്നിവയ്ക്ക് തുല്യമായിരിക്കണം നമുക്ക് T1 T2 ന് തുല്യമായ വൈരുദ്ധ്യമാണോ എന്ന് നോക്കാം ആദ്യം T1 T2 ആണ് ഷെഡ്യൂൾ എന്താണ് T1 T2 ടി 1 ന്റെ എല്ലാ നിർദ്ദേശങ്ങളും ഞങ്ങൾ നമുക്ക് എഴുതാം ആദ്യം അവ ദൃശ്യമാകുന്ന ക്രമത്തിൽ അത് ലംഘിക്കാനാവില്ല r1 എന്നിട്ട് w1 എന്നിട്ട് T2 ന്റെ എല്ലാ ഇൻസ്ട്രക്ഷനുകളും S ൽ നിന്ന് നോൺ കോൺഫ്ലിക്റ്റ് സ്വാപ്പ് പരമ്പരയിലൂടെ നമുക്ക് ഇതിൽ എത്തിച്ചേരാനാകും ആദ്യം നമുക്ക് അത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം ഇത് നല്ലതാണ് ഇതിലും ഒരു പ്രശ്നവുമില്ല അതുപോലെ ഈ രണ്ടിനും പ്രശ്നമില്ല കാരണം അവ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്നു എന്താണ് മാറ്റിയത് r2 ഉം r1 ഉം മാറ്റിയതായി പരിഗണിക്കുക കാരണം r1 ഇവിടെ വരേണ്ടതും r2 ഇവിടെ വരേണ്ടതുമാണ് ഈ രണ്ട് ഇൻസ്ട്രക്ഷനുകളും കോൺഫ്ലിക്റ്റിംഗ് അല്ല കാരണം അവ ഒരേ ഡാറ്റ ഇനത്തിൽ പ്രവർത്തിക്കുന്നില്ല ഇവ കോൺഫ്ലിക്റ്റിംഗ് അല്ല ഈ സ്വാപ്പ് നല്ലതാണ് ഇവ രണ്ടും മാറ്റിവച്ചു w2 w1 ഉപയോഗിച്ച് മാറ്റിയിരിക്കുന്നു കാരണം w1 ഇവിടെ വരുന്നു w2 ഇവിടെ വരുന്നു ഇവ രണ്ടും വീണ്ടും വൈരുദ്ധ്യമില്ലാത്തതാണോ അതെ കാരണം ഇവ രണ്ടും പ്രത്യേക ഡാറ്റ ഇനത്തിലാണ് പ്രവർത്തിക്കുന്നത് S T1 T 2 എന്നിവ തുല്യമാണ് ഇതിനുള്ള ഉത്തരം S കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ചെയ്യാവുന്നതാണ് ഡാറ്റാബേസ് സ്ഥിരതയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരു പ്രശ്നവുമില്ല ഇപ്പോൾ T2 T1 അല്ല T1 T2 ഉപയോഗിച്ചാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിക്കുക കാരണം അത് അവയിലൊന്നിന് കോൺഫ്ലിക്റ്റ് ഇക്വിവലൻററ് ആയിരിക്കണം ആദ്യ ടെസ്റ്റിൽ ഇത് ഇതിനകം വിജയിച്ചതിനാൽ അത് T2 T1 ഉപയോഗിച്ച് പരിശോധിക്കേണ്ടതില്ല ഇത് T1 T2 ന് ഇക്വിവലൻററ് അല്ലെങ്കിൽ അത് T2 T1 ഉപയോഗിച്ച് പരിശോധിക്കേണ്ടതുണ്ട് അത് T1 T2 പാസ്സാകാത്തപ്പോൾ മാത്രം പരിശോധിച്ചാൽ മതി നമുക്ക് മറ്റൊരു ഉദാഹരണം എടുക്കാം S എന്നത് r1 w2 w1 ആണ് ഇത് വളരെ ചെറിയ ഒരു ഷെഡ്യൂളാണ് ഇത് ഇക്വിവലൻററ് ആണോ എന്ന് നമുക്ക് നോക്കാം എന്താണ് T1 T2 r1 w1 w2 S തുല്യമാണോ എന്ന് നമുക്ക് പരിശോധിക്കാം T1 T2 ഇവ രണ്ടും മാറ്റിവച്ചു നമുക്ക് ഒരു കോൺഫ്ലിക്റ്റില്ലാത്ത സ്വാപ്പ് ചെയ്യാൻ കഴിയുമോ നമുക്ക് അത് പരീക്ഷിക്കാം അവ ഒരേ ഡാറ്റ ഇനത്തിൽ പ്രവർത്തിക്കുന്നു അവയിലൊന്ന് ഒരു എഴുത്താണ് ഇതിനർത്ഥം ഈ രണ്ട് ഇൻസ്ട്രക്ഷനുകങ്ങളും കോൺഫ്ലിക്റ്റിംഗ് ആണ് ഈ സ്വാപ്പ് നല്ലൊരു കൈമാറ്റമല്ല അതായത് S T1 T2 ന് ഇക്വിവലൻററ് അല്ല പക്ഷേ നമുക്ക് ഇപ്പോഴും S നെക്കുറിച്ച് ഒന്നും നിഗമനം ചെയ്യാൻ കഴിയില്ല നമ്മൾ അത് T2 T1 ഉപയോഗിച്ച് പരിശോധിക്കേണ്ടതുണ്ട് എന്താണ് T2 T1 T2 T1 W2 പിന്നെ r1 എന്നിട്ട് w1 ആണ് ഇത് S ന് തുല്യമാണോ എന്ന് നമുക്ക് നോക്കാം ഒരിക്കൽ കൂടി w1 ആണ് അവസാനം സംഭവിക്കുന്ന പ്രവർത്തനം അതിനാൽ വിഷമിക്കേണ്ട കാര്യമില്ല എന്നാൽ r1 w2 എന്നിവ മാറ്റിവച്ചു ആ കൈമാറ്റം നടക്കുമോ എന്ന് നമുക്ക് നോക്കാം r1 w2 എന്നിവ ഒരേ ഡാറ്റ ഇനത്തിലാണ് അവയിലൊന്ന് ഒരു എഴുത്താണ് ഇതും കോൺഫ്ലിക്റ്റിംഗ് ആണ് ഇതൊരു കോൺഫ്ലിക്റ്റിംഗല്ലാത്ത കൈമാറ്റമല്ല ഇതും തുല്യമല്ല S T1 T2 ന് ഇക്വിവലൻററ് അല്ലെങ്കിൽ T2 T1 ന് തുല്യമല്ല അതിനർത്ഥം ഇത് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിളല്ല S ഡാറ്റാബേസ് കൺസിസ്റ്റൻസി ഒരു തരത്തിലും സംരക്ഷിക്കില്ല S എന്നത് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ അല്ല അതാണ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി എന്ന ആശയം